ഒരു മാഗ്നെറ്റിക് ഫീൽഡിലെ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണുന്ന രീതി കാന്തിക മണ്ഡലം അഥവാ മാഗ്നെറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വെക്ടർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വെക്ടർ പൊട്ടൻഷ്യൽ A യുടെ കേൾ അവിടെയുള്ള മാഗ്നെറ്റിക് ഫീൽഡ് B ക്ക് സമമായിരിക്കും അതായത് A B അതിനാൽ നമ്മൾ ഇതുവരെ അവലംബിച്ച രീതി എന്തെന്നാൽ A വ്യക്തമായി കണ്ടുപിടിച്ച് അതിന്റെ ഘടകങ്ങളെ അനുബന്ധമായുള്ള B യുടെ ഘടകങ്ങളുമായി താരതമ്യപ്പെടുത്തി ഉറപ്പായും നിങ്ങൾക്ക് സംശയമുണ്ടാകാം കാന്തികമണ്ഡലം B നമുക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനുവേണ്ടി A കണ്ടുപിടിക്കണം എന്ന് എന്തുകൊണ്ടെന്നാൽ വൈദ്യുത മണ്ഡലത്തിന്റെ കാര്യത്തിൽ കണ്ടത് പോലെത്തന്നെ ഇവിടെയും മാഗ്നെറ്റിക് പൊട്ടൻഷ്യൽ കണക്കുകൂട്ടുന്നതിലൂടെ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാകുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മാഗ്നെറ്റിക് ഫീൽഡിന്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസിലാക്കാം അതിനുശേഷം ഒരു നിശ്ചിത വൈദ്യുത വിന്യാസത്തിൽ നിന്നും നേരിട്ട് വെക്ടർ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നും നോക്കാം ഇതുവരെ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനായി നമ്മൾ സ്വീകരിച്ച മാർഗത്തെ ഞാൻ മെത്തേഡ് 1 എന്ന് വിളിക്കുന്നു മറ്റൊരു മാർഗ്ഗം അതായത് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് വെക്ടർ പൊട്ടൻഷ്യൽ കണ്ടു പിടിക്കുന്ന രീതി നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം ഒരു അടഞ്ഞ പാതയിലൂടെ A യുടെ ലൈൻ ഇന്റഗ്രലും ഈ അടഞ്ഞ പാതയാൽ ചുറ്റപ്പെട്ട ഏരിയയിൽ A യുടെ സർഫേസ് ഇന്റഗ്രലും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്സ് തിയറംstoke's theorem ഇവിടെ സർഫേസ് ഏരിയയുടെ ദിശ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കാം വലതു കൈയുടെ ചുരുട്ടിയ വിരലുകൾ കറന്റിന്റെ ദിശയിലാണെങ്കിൽ പെരുവിരൽ ഏരിയയുടെ ദിശയിലായിരിക്കും അടുത്തതായി നമ്മൾ സ്റ്റോക്സ് തിയറം മാഗ്നെറ്റിക് ഫീൽഡ് കാണാനായി ഉപയോഗിക്കുകയാണ് അതായത് A dlA ds കാരണം നമുക്കറിയാം A B ആണെന്ന് ഇതിൽ നിന്നും എന്താണ് മനസിലാകുന്നത് ഒരു അടഞ്ഞ പാതയിലൂടെ വെക്റ്റർ പൊട്ടൻഷ്യൽ A യുടെ ലൈൻ ഇന്റഗ്രൽ എടുത്താൽ അത് ഈ പാതയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയിലൂടെയുള്ള മാഗ്നെറ്റിക് ഫ്ളക്സിന് തുല്യമായിരിക്കും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സമമിതി നിലനിൽക്കുന്ന അവസരങ്ങളിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സാധ്യമാണ് സ്റ്റോക്സ് തിയറം മറ്റു പല ക്വാണ്ടിറ്റികളും കണ്ടുപിടിക്കാൻ പിന്നീട് ഉപയോഗിക്കുമെങ്കിലും ഇവിടെ നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ഈ തിയറം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു അടഞ്ഞ പാത എടുക്കാം ഇവിടെ കോർഡിനേറ്റ്സ് എല്ലാം തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് എടുക്കുന്നത് നമുക്കിവിടെ അടഞ്ഞ വർത്തുള പാതയോ സന്ദർഭത്തിനനുസരിച്ച് മറ്റേതെങ്കിലും പാതയോ എടുക്കാവുന്നതാണ് ഈ പാതയിലൂടെ A dl എടുത്ത് അതിനെ ഈ പാത വലയം ചെയ്യുന്ന ഏരിയയിലൂടെയുള്ള ആകെ ഫ്ളക്സുമായി താരതമ്യം ചെയ്യേണ്ടതാണ് ഇതിൽ നിന്നും വെക്റ്റർ പൊട്ടൻഷ്യൽ A ലഭിക്കുന്നതാണ് ഇക്കാര്യം വിശദമാക്കാനായി ഞാനിവിടെ രണ്ട് ഉദാഹരണങ്ങൾ എടുക്കുകയാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡ് ന്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു നീണ്ട വയറിന്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ ഉദാഹരണം 1 നമ്മൾ യൂണിറ്റ് നീളത്തിൽ n ചുറ്റുകളുള്ള കറന്റ് I പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡ് എടുക്കുകയാണ് ഇത് കാരണമുള്ള മാഗ്നെറ്റിക് ഫീൽഡിന്റെ അളവ് ഈ മാഗ്നെറ്റിക് ഫീൽഡിന്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണണമെന്നിരിക്കട്ടെ നമുക്കിത് വെക്റ്റർ ഉപയോഗിച്ച് എഴുതാം കറന്റ് ഒഴുകുന്ന സോളിനോയിഡിന്റെ ആക്സിസ് Z ദിശയിലാണെന്നിരിക്കട്ടെ സോളിനോയിഡിന്റെ റേഡിയസ് R എന്നിരിക്കട്ടെ അപ്പോൾ മാഗ്നെറ്റിക് ഫീൽഡ് അപ്പോൾ Z ആക്സിസിനു ചുറ്റുമായി വർത്തുളാകൃതിയിൽ ഉള്ള കമ്പിചുരുളിൽ കൂടി ഒഴുകുന്ന കറന്റ് അതായത് ϕ ദിശയിൽ ഒഴുകുന്ന കറന്റ് Z ദിശയിൽ മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഇതിനോട് സമാനമായി നമുക്കറിയാം Z ദിശയിൽ കറന്റ് ഒഴുകുമ്പോൾ മാഗ്നെറ്റിക് ഫീൽഡ് Z ആക്സിസിനു ചുറ്റും അതായത് ϕ ദിശയിൽ ആയിരിക്കുമെന്ന് അതായത് Z ദിശയിലുള്ള കറന്റ് ഡെൻസിറ്റി j ϕ ദിശയിൽ Z ആക്സിസിനു ചുറ്റുമായി മാഗ്നെറ്റിക് ഫീൽഡ് B ഉണ്ടാക്കുന്നു നമ്മൾ AB എന്ന ഇക്വേഷനും B 0 j എന്ന ഇക്വേഷനും എടുത്താൽ നേരത്തെ പറഞ്ഞ സമാനതകൾ അനുസരിച്ച് ഇവിടെ j എന്നത് B യാലും B എന്നത് A യാലും മാറ്റപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം B ഇവിടെ Z ദിശയിലാണെന്ന് അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനുകളും തമ്മിലുള്ള സാദൃശ്യം അനുസരിച്ച് ഊഹിക്കാൻ സാധിക്കും വെക്റ്റർ പൊട്ടൻഷ്യൽ A യുടെ ദിശ ϕ യുടെ ദിശ തന്നെ ആയിരിക്കുമെന്ന് അതായത് അടുത്തതായി ഈ സോളിനോയിഡിന് ചുറ്റുമായി ഒരു അടഞ്ഞ പാത സങ്കൽപ്പിച്ച് A dl കണ്ടാൽ അത് ഈ പാത വലയം ചെയ്യുന്ന ഏരിയയിലൂടെയുള്ള ആകെ ഫ്ളക്സിന് തുല്യമായിരിക്കും 𝚽 എന്നത് മാഗ്നെറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ 2 s എന്നത് നമ്മളെടുത്തിരിക്കുന്ന അടഞ്ഞ പാതയുടെ നീളമാണ് A എന്നത് ϕ ദിശയിലായതുകൊണ്ട് Aϕ കംപോണേന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ A dl Aϕ 2 s എന്നത് ആകെ ഫ്ളക്സിന് തുല്യമാണ് അപ്പോൾ s R ആകുമ്പോൾ അതായത് സോളിനോയിഡിന് പുറത്ത് വെക്റ്റർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കുമെന്ന് നോക്കാം ഇക്വേഷനിൽ നിന്നും ക്യാൻസൽ ചെയ്ത് എന്ന് ലഭിക്കും സോളിനോയിഡിനുള്ളിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കുമെന്നു നോക്കാം സോളിനോയിഡിനുള്ളിൽ ഞാൻ ഒരു അടഞ്ഞ വലയം സങ്കല്പിക്കുകയാണ് കറന്റിന്റെ ദിശ ϕ ആയിരിക്കും മാഗ്നെറ്റിക് ഫീൽഡ് B Z ദിശയിലാണ് വിശാലമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കറന്റ് സോഴ്സ് കാരണമാണ് ഇവിടെ മാഗ്നെറ്റിക് ഫീൽഡ് B ഉള്ളത് ഇപ്രകാരം വിന്യസിക്കപ്പെട്ടിരിക്കുന്ന മാഗ്നെറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നു ഇവിടെ ആകെ ഫ്ലക്സ് s2 B ആണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്താൽ s R അല്ലെങ്കിൽ s ≤ R എന്ന സ്ഥിതിയിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ അപ്പോൾ വെക്റ്റർ പൊട്ടൻഷ്യൽ s R ഇവ തുല്യമാകുമ്പോൾ രണ്ടു റിസൾട്ടും ഒരുപോലെ ആകുന്നു റിസൾട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാം ഇവിടെ നമുക്ക് ശരിയായ B ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം A എടുത്താൽ നമുക്കറിയാം ഇവിടെ A ϕ ദിശയിലാണെന്നും ലഭിക്കുന്ന റിസൾട്ട് അതായത് B Z ദിശയിലാണെന്നും അതുകൊണ്ടുതന്നെ നമുക്ക് Z കംപോണേന്റ് എടുത്താൽ മതി അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്കി കംപോണന്റുകൾ കൂടി എടുത്ത് അവ സീറോ ആയിരിക്കുമെന്ന് ഉറപ്പു വരുത്താം ഉദാഹരണം 2 നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം ഇവിടെ നമ്മൾ I കറന്റ് പ്രവഹിക്കുന്ന ഒരു നീണ്ട വയർ എടുത്തിരിക്കയാണ് ഇവിടെയുണ്ടാകുന്ന മാഗ്നെറ്റിക് ഫീൽഡ് B നമ്മൾ നേരത്തെ കണ്ടതാണ് കറന്റിന്റെ ദിശ Z ദിശയായെടുത്തിരിക്കയാണ് അപ്പോൾ മാഗ്നെറ്റിക് ഫീൽഡ് Z ദിശയിലുള്ള കറന്റ് ആക്സിസിനു ചുറ്റും വാർത്തുളാകൃതിയിൽ മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഇതിനോട് സമാനമായി നമുക്ക് വാർത്തുളാകൃതിയിൽ Z ആക്സിസിനു ചുറ്റും ഒഴുകുന്ന കറന്റ് ഉണ്ടാക്കുന്ന മാഗ്നെറ്റിക് ഫീൽഡ് ഇവിടെ സ്ക്രീനിന്റെ വലതു ഭാഗത്തായി വരച്ചു കാണിക്കാം ഇവിടെ എന്ന ഇക്വേഷൻ എടുക്കാം ഇവിടെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഈ ഡിസ്ക്കിൽ വാർത്തുളാകൃതിയിൽ കറന്റ് ഒഴുകുന്നുണ്ടെന്നു കരുതുക ഇതുകാരണമുള്ള ഫീൽഡ് എങ്ങനെയായിരിക്കും കറന്റ് ഒരു സിലിണ്ടറിൽ കൂടി വർത്തുളാകൃതിയിൽ ഒഴുകുകയാണെങ്കിൽ ഫീൽഡ് Z ആക്സിസിന്റെ ദിശയിൽ മുകളിലേക്കായിരിക്കും നമ്മൾ നേരത്തെ സോളിനോയിഡിന്റെ ഫീൽഡ് കണ്ടപ്പോൾ കിട്ടിയതും ഇതേ രീതിയിലായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വൈദ്യുതപ്രവാഹമുള്ള നീണ്ട വയറിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ A Z ദിശയിൽ തന്നെ ആയിരിക്കും

അടുത്തതായി ഞാനിവിടെ ഇങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്ന ഒരു പാത സങ്കല്പിക്കുകയാണ് ഇൻഫിനിറ്റിയിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ A 0 ആണെന്ന് കരുതുക ഈ പാതയിൽ സ്റ്റോക്സ് തിയറം പ്രയോഗിച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന പാതയുടെ ഉയരം s ൽ നിന്ന് തുടങ്ങി l എന്നാണെന്നിരിക്കട്ടെ ഇവിടെ ഏരിയയുടെ ദിശ പേപ്പറിന്റെ പ്രതലത്തിന് ലംബമായി ഉള്ളിലേക്കായിരിക്കും ഇതുപോലെതന്നെ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ദിശ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ലഭിക്കും അപ്പോൾ B ds എന്നത് പോസിറ്റീവ് ആയിരിക്കും അതായത് ഫ്ലക്സ് പോസിറ്റീവ് ആയിരിക്കും അതായത് ഇടതുവശത്ത് എങ്ങനെയായിരിക്കും ഇവിടെ ആകെയുള്ളത് l ഉയരത്തിൽ ലംബമായി ഉള്ള ഈ പാതയിൽ നിന്നുള്ള ഫ്ലക്സ് ആയിരിക്കും അതായത് അപ്പോൾ ഞാൻ B യുടെ ഇക്വേഷനും സ്റ്റോക്സ് തിയറവും ഉപയോഗിച്ച് A കാണുന്ന വിധം രണ്ടു ഉദാഹരണങ്ങളിലൂടെ ഇവിടെ വ്യക്തമാക്കി ഈ രീതി വെക്റ്റർ പൊട്ടൻഷ്യൽ A എങ്ങനെയായിരിക്കുമെന്ന് മനസിലാക്കാനായി ഫലപ്രദമാണ് എന്നാൽ ഇത് B കാണാനുള്ള രീതിയല്ല കാരണം ഇവിടെ നമ്മൾ A കണ്ടുപിടിക്കുന്നത് B ഉപയോഗിച്ചാണ് അതായത് നമുക്ക് B എത്രയെന്ന് നേരത്തെ തന്നെ അറിയാം എന്നാൽ കറന്റ് ഡെൻസിറ്റിയിൽ നിന്നും A കണ്ടുപിടിച്ച് അതുപയോഗിച്ച് B കാണാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഉപകാരപ്രദമായിരുന്നു ഇന്നത്തെ ക്ലാസ് തീർക്കുന്നതിന് മുൻപായി ഞാൻ A B B 0 j എന്നീ ഇക്വേഷനുകൾ തമ്മിലുള്ള സാദൃശ്യം ഒന്നുകൂടെ പരിശോധിക്കാം ഫ്രീ സ്പേസ് ൽ B 0 j എന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് മാഗ്നെറ്റിക് ഫീൽഡ് B ലഭിക്കുന്നു

ഇതുപോലെ അല്ലെങ്കിൽ ഇതിനോട് സദൃശമായി A B എന്ന ഇക്വേഷനിൽ നിന്നും എന്ന് എഴുതാൻ സാധിക്കുമോ ഇവിടെ രണ്ട് ഇക്വേഷനും ഒരേ പോലെ ആണ് ചിഹ്നങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളത് അപ്പോൾ കിട്ടുന്ന റിസൾട്ടും ഒരേ പോലെ ആവണമല്ലോ നേരത്തെ A കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷനിൽ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് സബ്സ്റ്റിട്യൂട് ചെയ്തിരുന്നു ഇവിടെ നമ്മൾ ഒരു ടോറോയ്ഡ് അതായത് ഒരു സോളിനോയിഡ് കൊണ്ടുള്ള റിംഗ് എടുക്കുകയാണ് അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കമ്പിച്ചുരുൾ കൊണ്ടുള്ള ഒരു റിംഗ് ആണിത് ഈ സോളിനോയിഡ് വളരെ കട്ടികുറഞ്ഞതാണെങ്കിൽ ഇത് ഒരു മാഗ്നെറ്റിക് ഫ്ളക്സ് ഉള്ള ഒരു റിംഗ് പോലെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇതിന്റെ ആക്സിസിലുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ A നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു വയറിന്റെ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടതുപോലെ ഇവിടെ റിംഗിലൂടെയുള്ള മാഗ്നെറ്റിക് ഫ്ളക്സ് Φ എന്നത് ഒരു ഫ്ലക്സ് റിംഗ് എന്ന രീതിയിൽ എടുത്ത് ഈ ഫോർമുല ഉപയോഗിച്ച് വെക്റ്റർ പൊട്ടൻഷ്യൽ A കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഇത് നിങ്ങൾ ഒരു അഭ്യാസമായി പിന്നീട് ചെയ്തു നോക്കണം ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ തമ്മിൽ സാമ്യമുള്ള ഇക്വേഷനുകൾ പലപ്പോഴും സദൃശമായ റിസൾട്ടുകളും ഉണ്ടാക്കുന്നു പലതരത്തിലുള്ള ഫീൽഡുകളെ കുറിച്ച് മനസിലാക്കാനും പഠിക്കാനും ഈ ഒരു രീതി വളരെ ഉപകാരപ്രദമാണ്